ഇപ്പോൾ ഞാൻ ഒരു പ്രധാന ആശയം ചർച്ച ചെയ്യും അത് പിന്നീട് സർക്യൂട്ടുകളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും സന്ദർശിക്കും ഇത് ലിനിയാരിട്ടി ആണ് ഇപ്പോൾ നമ്മൾ അടിസ്ഥാന ഘടകങ്ങൾ മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ അതിനാൽ നമ്മൾ ഘടകങ്ങളുടെ ലിനിയാരിട്ടിയെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുകയുള്ളൂ പിന്നീട് നമ്മൾ അത് മുഴുവൻ സർക്യൂട്ടുകളുടെയും ലിനിയാരിട്ടിയിലേക്ക് വികസിപ്പിക്കും അതിനാൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഘടകങ്ങളിൽ ഏതാണ് ലീനിയർ എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം ഇപ്പോൾ ലിനിയാരിട്ടി എന്താണ് അർത്ഥമാക്കുന്നത് ഇത് അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ലീനിയർ ആയ ഒരു ഘടകത്തിന്റെ സവിശേഷതകൾ സൂപ്പർപോസിഷനെ അനുസരിക്കുന്നു എന്നാണ് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒരു വോൾടേജ് V1 ഉണ്ടെന്ന് പറയട്ടെ അത് കറണ്ട് I1 നു കാരണമാകുന്നു ഒരു വോൾട്ടേജ് V2 അത് കറണ്ട് I2 നു കാരണമാകുന്നു നിങ്ങൾ വോൾട്ടേജ് V1V2 പ്രയോഗിച്ചാൽ സൂപ്പർ പൊസിഷന്റെ അർത്ഥമെന്താണ് ഈ രണ്ട് വോൾട്ടേജുകളുടെയും ലീനിയർ സംയോജനമാണ് I1 I2 ആയ ഒരു കറണ്ട് ആൽഫ യുടേം ബീറ്റാ ഉദ്ദേശം ഫലം ഒന്ന് തന്ന്നെ ആണ് അതിനാൽ ഇത് വ്യക്തമായും അർത്ഥമാക്കുന്നത് നിങ്ങൾ V1 ന്റെ മൂല്യം ഇരട്ടിയാക്കിയാൽ നിങ്ങൾക്ക് കറന്റ് ഇരട്ടി ലഭിക്കും നിങ്ങൾ V1 ന്റെ മൂല്യം മുമ്പത്തേതിന്റെ പകുതിയാക്കി മാറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒറിജിനൽ കറണ്ട് ഇന്റെ പകുതി നൽകുന്നു ഇപ്പോൾ തീർച്ചയായും ഞാൻ ഇവിടെ വോൾട്ടേജുകളും കറന്റും എടുത്തിട്ടുണ്ട് എന്നാൽ ഇത് സിസ്റ്റങ്ങളിൽ പ്രയോഗിക്കാൻ കഴിയുന്ന പൊതു സ്വഭാവമാണ് നിങ്ങൾക്ക് ചില ഉത്തേജനം ഉണ്ടെങ്കിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാകും പ്രതികരണം ഉത്തേജനത്തിനു ആനുപാതികം ആണെങ്കിൽ അത് ലീനിയർ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉത്തേജനം ഒന്ന് നിങ്ങൾക്ക് പ്രതികരണം ഒന്ന് നൽകുന്നു ഉത്തേജനം രണ്ട് നിങ്ങൾക്ക് പ്രതികരണം രണ്ട് നൽകുന്നു ഈ രണ്ട് ഉത്തേജനങ്ങളുടെയും ലീനിയർ സംയോജനം അനുബന്ധമായ രണ്ട് പ്രതികരണങ്ങളുടെ ലീനിയർ സംയോജനം ആയിരിക്കണം ഇത് വ്യക്തമല്ലെങ്കിൽ നമ്മൾ ഉദാഹരണങ്ങൾ ചർച്ച ചെയ്തയുടനെ അത് വ്യക്തമാകും നമുക്ക് റെസിസ്റ്റർ വോൾട്ടേജ് V യും കറന്റ് I ഉം ആനുപാതികമായ ബന്ധത്തിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ലീനിയർ ആണെന്നു ഇത് നിങ്ങളോട് പറയുന്നു അതിനാൽ അതിന്റെ അർത്ഥം കറന്റ് I1 ആയിരുന്നപ്പോൾ വോൾട്ടേജ് V1 ആയിരുന്നു തീർച്ചയായും റെസിസ്റ്റർ ഓംസ് നിയമം അനുസരിക്കുന്നു V1 I1 R ഉം കറന്റ് I2 ഉം വോൾട്ടേജ് v2 ഉം ആയിരിക്കുമ്പോൾ V2 I2 R ഉം ഇനി കറണ്ട് I1 I2 ആണെങ്കിൽ എന്തു സംഭവിക്കും അപ്പോൾ വോൾടേജ് I1 I2 R അടിസ്ഥാനപരമായി ഇത് ഒരു I R ആണ് തീർച്ചയായും ഇത് I1R I2R എന്ന് എഴുതാം മാത്രമല്ല അത് തീർച്ചയായും ഇത് V1 V2 ആണ് അതായത് നമ്മൾ കറന്റ് I1 പ്രയോഗിച്ചാൽ നമുക്ക് വോൾട്ടേജ് V1 ലഭിക്കും നമ്മൾ I2 പ്രയോഗിച്ചാൽ നമുക്ക് V 2 ലഭിക്കും അതിനാൽനമ്മൾ ഒരു ലീനിയർ കോമ്പിനേഷൻ I1 I2 പ്രയോഗിച്ചാൽ നമുക്ക് അതേ ലീനിയർ കോമ്പിനേഷൻ പ്രതികരണങ്ങൾ ലഭിക്കും V1 V2 അതിനാൽ ഒരു റെസിസ്റ്റർ ഒരു ലീനിയർ ഘടകമാണ് അതിനാൽ പ്രൊപ്പോഷണാലിറ്റി കാണിക്കുന്ന ഒരു ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒരു ലീനിയർ ഘടകമാണ് ഇവയുടെ ഒരു പ്രധാന സവിശേഷത ഇപ്പോൾ I 0 V പൂജ്യമാണെങ്കിൽ പ്രതികരണം പൂജ്യമായിരിക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് മറ്റ് ഘടകങ്ങളിൽ പ്രത്യേകിച്ചും വോൾട്ടേജ് സ്രോതസ്സിലും കറന്റ് ഉറവിടത്തിലും ഈ പരീക്ഷണം പരീക്ഷിക്കാം കാരണം അവ ആശയക്കുഴപ്പത്തിലാക്കാം കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ലീനിയർ എന്ന് പറയുകയും ചെയ്യും പക്ഷേ അവ അങ്ങനെയല്ല അതിനാൽ നമുക്ക് വോൾട്ടേജ് ഉറവിടം നോക്കാം അതിലൂടെ ഒഴുകുന്ന കറണ്ട് I പരിഗണിക്കാതെ തന്നെ അത് ഒരു വോൾട്ടേജ് V നിലനിർത്തുന്നു കൂടാതെ ഗ്രാഫിക്കലായി ബന്ധം ഒരു നേർരേഖ നൽകുന്നു അതിനാൽ ഇത് V0 ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു നേർരേഖ ആയതിനാൽ ഇത് ഒരു ലീനിയർ ഘടകം ആണോ എന്ന സംശയം വരാം പക്ഷേ അങ്ങനെയല്ല സൂപ്പർപോസിഷൻ പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അത് പരിശോധിക്കാൻ കഴിയും അതിനാൽ കറണ്ട് I I1 എന്ന ഒരു പ്രത്യേക മൂല്യമാണെന്ന് പറയട്ടെ അപ്പോൾ വോൾട്ടേജ് V V0 ന് തുല്യമായിരിക്കും കാരണം അത് വോൾട്ടേജ് ഉറവിടത്തിന്റെ സ്വഭാവം ആണ് അത് എല്ലായ്പ്പോഴും ഒരു വോൾട്ടേജ് V0 നിലനിർത്തും അതുപോലെ കറണ്ട് മറ്റൊരു മൂല്യം I2 ആണെങ്കിൽ വോൾട്ടേജ് ഇപ്പോഴും Vo ആയിരിക്കും നിങ്ങൾ ഈ I1 I2 ന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ പ്രയോഗിച്ചാൽ വോൾട്ടേജ് ഇപ്പോഴും Vo ആയിരിക്കും ഇത് തീർച്ചയായും ലീനിയർ കോമ്പിനേഷൻ V1 V2 ന് തുല്യമല്ല അതിനാൽ അത് സൂപ്പർപോസിഷനെ അനുസരിക്കുന്നില്ല അതിനർത്ഥം അത് ലീനിയർ അല്ല എന്നാണ് അതിനാൽ ക്യാരക്ടറിസ്റ്റിക്സിലെ നേർരേഖ ആശയക്കുഴപ്പത്തിലാക്കരുത് കാരണം ഇത് ലീനിയർ അല്ല കാരണം ഇത് സൂപ്പർപോസിഷൻ അനുസരിക്കുന്നില്ല കറണ്ട് ഉറവിടത്തിനും അതേ കാര്യം തന്നെയാണ് വീണ്ടും IV ക്യാരക്ടറിസ്റ്റിക്സ് ഒരു നേർരേഖയിൽ ആണ് അടങ്ങിയിരിക്കുന്നത് ഇത് I0 ആണ് എന്നാൽ സൂപ്പർപോസിഷൻ അനുസരിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ് കാരണം നിങ്ങൾ ചില വോൾട്ടേജ് V1 പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു കറണ്ട് I0 ലഭിക്കും നിങ്ങൾ ഒരു നിശ്ചിത വോൾട്ടേജ് V2 പ്രയോഗിക്കുക അത് V1 ന്റെ ഇരട്ടി എന്ന് പറയാൻ അനുവദിക്കുക നിങ്ങൾക്ക് ഇപ്പോഴും ഒരു കറന്റ് ലഭിക്കും അത് I0 തുല്യമാണ് നമ്മുക്ക് ഇരട്ടി കറണ്ട് ലഭിക്കില്ല അതിനാൽ ഇതും ലീനിയർ അല്ല അതിനാൽ റെസിസ്റ്റർ ഒരു ലീനിയർ ഘടകം ആണെന്ന് അത് ശരിയായ ഉത്തരമാണെന്നും എല്ലാവരും പറയുന്നത് വളരെ വ്യക്തമാണ് എന്നാൽ ചിലപ്പോൾ ചില ആളുകൾ ഒരു അനുയോജ്യമായ വോൾട്ടേജ് ഉറവിടത്തിന്റെ നേർരേഖാ സവിശേഷതകളാൽ ആശയക്കുഴപ്പത്തിലാകുന്നു അല്ലെങ്കിൽ അനുയോജ്യമായ ഒരു കറണ്ട് ഉറവിടം അവ രേഖീയമല്ല കാരണം അവ സൂപ്പർപോസിഷൻ അനുസരിക്കുന്നില്ല കറണ്ട് മൂല്യം 0 ന് തുല്യമാണെങ്കിൽ മാത്രമേ ലീനിയർ ആവുകയുള്ളൂ അത് വളരെ രസകരമായ ഒരു കേസല്ല അതിനാൽ കറണ്ട് ഉറവിടം പൂജ്യം മൂല്യമുള്ള കറണ്ട് ഉറവിടമാണെങ്കിൽ അല്ലെങ്കിൽ വോൾട്ടേജ് ഉറവിടം പൂജ്യ മൂല്യമുള്ള വോൾട്ടേജ് ഉറവിടമാണെങ്കിൽ അവ ലീനിയർ ഘടകങ്ങളാണെന്ന് നമ്മുക്ക് പരിഗണിക്കാം ഇപ്പോൾ ഒരു റെസിസ്റ്ററിന്റെ കറണ്ട് ഉറവിടത്തിൻറെ വോൾടേജ് ഉറവിടത്തിൻറെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേർതിരിക്കുന്നത് എന്താണ് ഇവയ്ക്കെല്ലാം നേർരേഖ ആണ് ഞാൻ ഇവിടെ എഴുതട്ടെ റെസിസ്റ്ററിന് ഇതുപോലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് വോൾട്ടേജ് ഉറവിടത്തിന് ഈ ക്യാരക്ടറിസ്റ്റിക്സ് y അക്ഷത്തിന് സമാന്തരമാണ് കറണ്ട് ഉറവിടത്തിന് x അക്ഷത്തിന് സമാന്തര ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഇവ മൂന്നും നേർരേഖ ആണ് എന്നാൽ ക്യാരക്ടറിസ്റ്റിക്സ്കളിൽ നിന്ന് നിങ്ങൾക്ക് ഇത് മാത്രം ലീനിയർ ആണെന്ന് ഊഹിക്കാൻ സാധിക്കും ഇത് ഒരു നേർരേഖ ആയാൽ മാത്രം പോരാ പക്ഷെ അത് ഉത്ഭവത്തിലൂടെ കടന്നുപോകുന്ന ഒരു നേർരേഖയായിരിക്കണം അത് ഉത്ഭവത്തിലൂടെ കടന്നുപോകുന്നു എങ്കിൽ അത് ലീനിയർ ആയിരിക്കും ഇല്ലെങ്കിൽ അത് സൂപ്പർപോസിഷനെ അനുസരിക്കില്ല അതിനാലാണ് വോൾട്ടേജ് ഉറവിടം പൂജ്യം ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതായിരിക്കും ഇത് ഉത്ഭവത്തിലൂടെ കടന്നുപോകുന്നു അതുപോലെ തന്നെ കറന്റ് ഉറവിടങ്ങൾ പൂജ്യം ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതായിരിക്കും ഇത് ഉത്ഭവത്തിലൂടെ കടന്നുപോകുന്നു അതിനാൽ അവ ലീനിയർ അല്ല ഇൻഡക്റ്ററും കപ്പാസിറ്ററും എന്നീ രണ്ട് ഘടകങ്ങളെ വേഗത്തിൽ നോക്കാം കപ്പാസിറ്റർ I Cdvdt ആണ് നിങ്ങൾക്ക് ചില കറന്റ് I1 ഉണ്ടെങ്കിൽ പ്രത്യേക വോൾട്ടേജ് V1 ഉണ്ടാകും കാരണം അത് ടൈം വേരിയിങ് ആണ് മറ്റൊരു വോൾട്ടേജ് വേവ്ഫോം V2 കാരണം മറ്റൊരു കറന്റ് ഇവയെല്ലാം സമയത്തിന്റെ പ്രവർത്തനങ്ങളാണ് എന്നിരുന്നാലും ഞാൻ അവ വ്യക്തമായി കാണിക്കുന്നില്ല അങ്ങനെ ആകാൻ ഈ വോൾട്ടേജുകളുടെ ലീനിയർ കോമ്പിനേഷൻ നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ V1v2 ആയി ലീനിയർ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറയട്ടെ നിങ്ങൾക്ക്V1v2 ലഭിക്കും ഇത് കറണ്ട് നൽകും ടൈം ഡെറിവേറ്റീവ് ഇന്റെ ലിനേയറിട്ടി കാരണം നിങ്ങൾക്ക് Cdv1dtCdv2dt ലഭിക്കും അത് I1I2ആണ് അതിനാൽ ഇത് I1 I2 എന്നിവയുടെ ലീനിയർ കോമ്പിനേഷനാണ് അതിനാൽ അടിസ്ഥാനപരമായി ടൈം ഡെറിവേറ്റീവ് ലീനിയർ സ്വഭാവസവിശേഷതകൾ അതിനാൽ C ഒരു ലീനിയർ ഘടകമാണ് അതുപോലെ തന്നെ ഇണ്ടക്ടർ VLdIdt ബന്ധത്തെ അനുസരിക്കുന്ന ഇൻഡക്റ്റർ ഉം ലീനിയർ ആണ് അത് തെളിയിക്കാനുള്ള ഒരു ചോദ്യം ആയി ഞാൻ ഇത് വിടും അത് ബന്ധത്തിൽ നിന്ന് വീണ്ടും വ്യക്തമായിരിക്കണം അതിനാൽ ഇവ രണ്ടും ലീനിയർ ഘടകങ്ങളാണ് നമ്മൾ പിന്നീട് മുഴുവൻ സർക്യൂട്ടുകളുടെയും ലീനിയറിറ്റി കാണുംസൂപ്പർപോസിഷൻ അവയ്ക്ക് എങ്ങനെ ബാധകമാകും മാത്രമല്ല അത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമല്ല സർക്യൂട്ടുകളുടെ പരിഹാരങ്ങൾ ലളിതമാക്കാൻ കഴിയുന്ന ഒന്നാണ്